തിരികെ സ്വാഗതം ഇത് പ്രഭാഷണ നമ്പർ 48 ആണ് ഇന്ന് നമ്മൾ ഐഗൻവാല്യൂകളുടെയും ഐഗൻവെക്ടറുകളുടെയും സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കും ഐഗൻ വാല്യൂകളുടെയും ഐഗൻവെക്ടറുകളുടെയും സവിശേഷതകൾ എന്നത് A യുടെ ഒരു ഐഗൻവാല്യൂവും x അതിന്റെ അനുബന്ധ ഐഗൻവെക്റ്റർഉം ആയിരിക്കട്ടെ തുടർന്ന് αA യ്ക്ക് എന്ന ഐഗൻവാല്യൂ ഉണ്ടായിരിക്കും അനുബന്ധ ഐഗൻവെക്റ്റർ x ആയിരിക്കും • ഏതൊരു പോസിറ്റീവ് ഇന്റിജർ m നും ന് എന്ന ഐഗൻവാല്യൂ ഉണ്ടായിരിക്കും അനുബന്ധ ഐഗൻവെക്റ്റർ x ആയിരിക്കും is eigenvalue of ഈ ന്റെ ഐഗൻവാല്യൂ ആണ് എന്ന് നമ്മൾ കാണുന്നു ഇപ്പോൾ അടുത്ത പ്രോപ്പർട്ടി രണ്ട് വ്യത്യസ്ത ഐഗൻ വാല്യൂകളുമായി അനുബന്ധമുള്ള രണ്ട് ഐഗൻവെക്റ്ററുകൾ എല്ലായ്പ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ ഇവിടെ തെളിയിക്കും ഈ നിരീക്ഷണം നമ്മൾ ഇതിനകം തന്നെ സംഖ്യാ ഉദാഹരണങ്ങൾക്കായി കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഫലത്തെ കൂടുതൽ പൊതുവായ മാട്രിക്സ്നായി നമുക്ക് ഇവിടെ സൈദ്ധാന്തികമായി തെളിയിക്കാനാകും ഏതൊരു മാട്രിക്സിനും സൈദ്ധാന്തികമായി ഇത് തെളിയിക്കാനാകും അതിനാൽ നമ്മൾ ഇപ്പോൾ എന്താണ് പരിഗണിക്കുന്നത് എന്നിവ യഥാക്രമം എന്നീ രണ്ട് വ്യത്യസ്തമായ ഐഗൻ വാല്യൂകൾക്കനുസൃതമായ A യുടെ ഐഗൻവെക്റ്ററുകളാകട്ടെ

പരിഗണിക്കുക പിന്നെ With this so we have two equations now this since since Hence and are linearly independent

അതിനാൽ രണ്ട് വ്യത്യസ്ത ഐഗൻ വാല്യൂകൾ നമ്മൾ പരിഗണിച്ചപ്പോൾ ഇത് സംഭവിച്ചു പക്ഷേ ഇവിടെ കൂടുതൽ ഐഗൻ വാല്യൂകൾക്കായി ഈ കേസ് സാമാന്യവൽക്കരിക്കാനും കഴിയും നമുക്ക് ഇവിടെ ഇവ യഥാക്രമം ഐഗൻവാല്യൂകളായ എന്നിവയുമായി ബന്ധപ്പെട്ട ഐഗൻവെക്റ്ററുകളാണ് ഈ സന്ദർഭത്തിലും നമുക്ക് ഈ ഐഗൻവെക്ടറുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് തെളിയിക്കാൻ സമാനമായ ട്രിക്ക് ഉപയോഗിക്കാം അതിനാൽ വ്യത്യസ്തമായ ഐഗൻവാല്യൂവുമായി ബന്ധപ്പെട്ട ഐഗൻവെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന വളരെ നല്ല ഫലം നമ്മൾക്ക് ഉണ്ട് മറ്റൊരു ഫലം x എന്നത് ഐഗൻവാല്യൂ യ്ക്ക് അനുയോജ്യമായ A യുടെ ഒരു ഐഗൻവെക്റ്റർ ആണെങ്കിൽ ഈ kx ഉം അതേ ഐഗൻവാല്യൂന് അനുയോജ്യമായ ഐഗൻവെക്റ്റർ ആണ് അതിനാൽ തന്നിരിക്കുന്ന ഐഗൻവെക്റ്ററിനെ നിങ്ങൾക്ക് ഏത് സ്ഥിരാങ്കത്താലും ഗുണിക്കാനാകുമെന്നും ഇത് ഐഗൻവെക്റ്ററായി തുടരുമെന്നും നമ്മൾ മുമ്പ് കണ്ടതാണ് അത് നമ്മൾ ഇവിടെ കാണുന്നു കൂടുതൽ ഔപചാരികമായി ഇത് ഏത് മാട്രിക്സിനും ശരിയാണ് അതിനാൽ ഇവിടെ Ax λx എന്നത് ഒരു ബന്ധമാണ് അതിനാൽ അത് നമ്മോട് പറയുന്നു ഒരു ഐഗൻവാല്യൂഉം x അനുബന്ധ ഐഗൻവെക്റ്റർഉം ആണ് തുടർന്ന് k ടൈംസ് എന്നത് അർത്ഥമാക്കുന്നത് നമ്മൾ ഇവിടെ k കൊണ്ട് സമവാക്യത്തിന്റെ ഇരുവശത്തും ഗുണിക്കുക എന്നാണ് അതിനുശേഷം നമുക്ക് ഉണ്ട് എന്നിട്ട് നമുക്ക് ഇത് പോലെ കംബൈൻ ചെയ്യാം അതിനാൽ ഇവിടെ ഈ റിലേഷൻ ഉണ്ട് A ഗുണം വെക്റ്റർ എന്നത് λ ഗുണം അതേ വെക്റ്റർ എന്നതിനോട് തുല്യമാണ് ഇത് ഈ വീണ്ടും ഐഗൻവെക്റ്റർ ആണെന്ന് നമ്മോട് പറയുന്നു x ഒരു ഐഗൻവെക്റ്റർ ആയിരുന്നെങ്കിൽ k തവണ x എന്നതും ഈ k ഒരു നോൺ സീറോ സ്കെലാർ ആണ് ഒരു ഐഗൻവെക്റ്റർ ആയിരിക്കും മറ്റൊരു റിസൾട് ഇവിടെ x എന്നത് മാട്രിക്സ് A യുടെ ഐഗൻവെക്റ്ററാണെങ്കിൽ x ന് A യുടെ ഒന്നിലധികം ഐഗൻവാല്യൂയുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല അതിനാൽ ഐഗൻവെക്റ്റർ ഒരു അദ്വിതീയത പോലെയാണ് എന്നത് മറ്റൊരു പ്രധാന ഫലം ആണ് അതിനാൽ നിങ്ങൾക്ക് ലാംഡ എന്ന് ഒരു ഐഗൻവെക്റ്റർ ഉണ്ടെങ്കിൽ ഈ x ന് മറ്റേതെങ്കിലും ഐഗൻ വാല്യൂവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല അതിനാൽ ഇത് ആ അർത്ഥത്തിൽ യൂനിക് ആണ് അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു മാട്രിക്സിനായി നമ്മൾ എന്നത് കരുതുകയാണെങ്കിൽ since അതിനാൽ ഈ രണ്ട് ഐഗൻ വാല്യൂകളും ഒരേ ഐഗൻ വാല്യൂകളായിരിക്കണം നിങ്ങൾക്ക് ഒരേ ഐഗൻവെക്റ്ററുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന 2 വ്യത്യസ്ത ഐഗൻ വാല്യൂകൾ ഉണ്ടായിരിക്കില്ല ക്ക് ഐഗൻ വാല്യൂ ആയിരിക്കും അനുബന്ധ ഐഗൻവെക്റ്റർ x ആണ് ഈ പുതിയ മാട്രിക്സ് നമുക്കുണ്ടെങ്കിൽ ഉള്ള മറ്റൊരു ഫലമാണിത് മറ്റൊന്ന് ഈ വീണ്ടും ഇവിടെ പ്രധാനമാണ് ഒരു മാട്രിക്സിനായി നില നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഒരു മാട്രിക്സിനായി നില നിൽക്കുന്നുവെങ്കിൽ ഈ ന് ഇവിടെ ഐഗൻ വാല്യൂകൾ ഉണ്ടായിരിക്കും അത് ആയിരിക്കും • ന് അത് നില നിൽക്കുന്നുവെങ്കിൽ ഇവിടെ ഐഗൻ വാല്യൂ ആയിരിക്കും അനുബന്ധ ഐഗൻവെക്റ്റർ x ആണ്

എന്നിവയ്ക്ക് ഒരേ ഐഗൻ വാല്യൂകൾ ആയിരിക്കും ഉണ്ടാവുക അത് നമുക്ക് വീണ്ടും എളുപ്പത്തിൽ കാണാൻ കഴിയും കാരണം ന്റെ ഡിറ്റർമിനന്റ് യഥാർത്ഥത്തിൽ ഐഗൻവാല്യൂസ് നൽകുന്ന ക്യാരക്ടറിസ്റ്റിക് സമവാക്യമാണ് det അതിനാൽ ഇവിടെ ഫലം എന്നിവയ്ക്ക് ഒരേ ഐഗൻവാല്യൂ ഉണ്ടാകും എന്നത് മറ്റൊരു പ്രധാന റിസൾട്ട് ആണ് ഈ ഡിറ്റർമിനന്റ്ന്റെ സഹായത്തോടെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകുന്ന മറ്റൊരു പ്രധാന ഫലമാണിത് അടുത്ത സിദ്ധാന്തം ഇവിടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടുകൾ ഞാൻ അർത്ഥമാക്കുന്നത് ഐഗൻ വാല്യൂകൾ ചിലപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ടുകൾ എന്നും വിളിക്കുന്നു ഹെർമിഷ്യൻ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകൾ റിയൽ ആയിരിക്കും അപ്പോൾ ഹെർമിഷ്യൻ മാട്രിക്സ് എന്താണ് A A എന്നാണെങ്കിൽ അതിനർത്ഥം A എന്നത് ഹെർമിഷ്യൻ ആണെന്ന് നമുക്കറിയാം A ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ മാട്രിക്സ് A യുടെ ട്രാൻസ്പോർട്ട് എടുക്കുന്നു കൂടാതെ നമ്മൾ മാട്രിക്സ് A യുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റും എടുക്കുന്നു എന്നാണ് അതിനാൽ ഈ ട്രാൻസ്പോസിൻറെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റു A യ്ക്ക് തുല്യമാണ് അപ്പോൾ നമ്മൾ A യെ ഹെർമിഷ്യൻ മാട്രിക്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ഹെർമിഷ്യൻ മാട്രിക്സിന് റൂട്ടുകൾ റിയൽ ആണ് കാരണം മാട്രിക്സിന് എല്ലാ എൻട്രികളും റിയൽ ഉണ്ടെങ്കിലും നമുക്ക് കോംപ്ലക്സ് സംഖ്യയായി ക്യാരക്ടറിസ്റ്റിക് റൂട്ടുകൾ ലഭിക്കും റിയൽ എൻട്രികളുള്ള വളരെ ലളിതമായ 2 ബൈ 2 മാട്രിക്സ് ഉള്ള ഉദാഹരണങ്ങളിലൊന്ന് മുൻ പ്രഭാഷണങ്ങളിൽ നമ്മൾ കണ്ടു അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അഥവാ ഞാൻ അർത്ഥമാക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് റൂട്ടുകൾ ഐഗൻ വാല്യൂകൾ റിയൽ അല്ല കോംപ്ലക്സ് ആണ് അതിനാൽ ഹെർമിഷ്യൻ മാട്രിക്സിന്റെ ഈ കേസിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക് റൂട്ടുകളും റിയൽ ആണെന്ന റിസൾട്ട് നമുക്ക് ഇവിടെയുണ്ട് അതിനാൽ എന്നത് A യുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടും x അനുബന്ധ ഐഗൻവെക്റ്ററും ആണെങ്കിൽ ഇത് റിയൽ ആയിരിക്കണമെന്ന് നമ്മൾ കാണിക്കും എങ്ങനെ അതിനാൽ നമ്മൾക്ക് ഈ ഉണ്ട് അത് ഐഗൻ വാല്യൂകളുടെയും ഐഗൻവെക്റ്ററുകളുടെയും പ്രോപ്പർട്ടിയാണ്

ഇരുവശത്തും കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുന്നു since

is real

അതിനാൽ ഇവിടെ എന്നത് ന് തുല്യമാകണം കാരണം ഈ അളവ് 0 ആകാൻ കഴിയില്ല അതിനാൽ ഇത് 0 ആയിരിക്കണം അതിനാൽ ഇവിടെ എന്ന് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം കൾ റിയൽ ആണെന്ന് ഇവിടെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഹെർമിഷ്യൻ മാട്രിക്സിന്റെ ഐഗൻവാല്യു ആണെങ്കിൽ അർത്ഥം ഇത് ഒരു റിയൽ നമ്പർ ആണ് അത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കാൻ കഴിയില്ല അതിനാൽ സമാനമായി മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ ചെയ്ത തെളിവുകളുടെ സമാനമായ വരികളുള്ള ഈ ഇനിപ്പറയുന്ന ഫലങ്ങൾ തെളിയിക്കാൻ കഴിയും റിയൽ സിമെട്രിക് മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകളും റിയൽ ആണ് അതും നമുക്ക് കഴിയും റിയൽ സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ തികച്ചും ഇമാജിനറി ആയിരിക്കും സ്ക്യൂ സിമെട്രിക് എന്നാൽ A യുടെ ട്രാൻസ്പോസ് മൈനസ് A ആയിട്ടുള്ള മാട്രിക്സ് ആയിരിക്കും അതിനാൽ അത്തരം മെട്രിക്സുകളുടെ ഐഗൻ വാല്യൂകൾ തികച്ചും ഇമാജിനറി ആണ് അല്ലെങ്കിൽ 0 ആണ് എന്നത് രണ്ട് സാധ്യതകളാണ് ഇത് വീണ്ടും നിങ്ങൾ മുമ്പത്തെ തെളിവ് പിന്തുടരുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ കഴിയും ഹെർമിഷ്യൻ മാട്രിക്സിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു സ്ക്യൂ ഹെർമിഷ്യൻ മാട്രിക്സ് ഉണ്ട് അതായത് ഈ A സ്റ്റാർ A മൈനസ് A ക്ക് തുല്യമാണ് അതിനാൽ വീണ്ടും ആ സന്ദർഭങ്ങളിൽ ഐഗൻ വാല്യൂകൾ തികച്ചും ഇമാജിനറി അല്ലെങ്കിൽ 0 അതിനാൽ നേരത്തെയുള്ള തെളിവുകളുടെ അനന്തരഫലങ്ങളാണ് ഇവ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നവയാണ് ഇപ്പോൾ മറ്റൊരു സുപ്രധാന ഫലം യൂണിറ്ററി മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകൾ യൂണിറ്റ് മോഡുലസു കളുള്ളവയാണ് നിങ്ങൾക്ക് യൂണിറ്ററി മാട്രിക്സ് ഉണ്ടെങ്കിൽ അതായത് AA I അത്തരം മെട്രിക്സുകളെ യൂണിറ്ററി മാട്രിക്സ് എന്ന് വിളിക്കുന്നു നമ്മൾക്ക് ഇതും പൊതുവായി തെളിയിക്കാം അതിനാൽ നമ്മൾക്ക് യൂണിറ്ററി മാട്രിക്സ് ഉണ്ടെങ്കിൽ ഐഗൻവാല്യൂകളുടെ മോഡുലസ് 1 ആണെന്ന് നമ്മൾ ഇപ്പോൾ തെളിയിക്കും ഇതിനർത്ഥം നിങ്ങൾ ഇവിടെ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും അതിനാൽ വീണ്ടും നമ്മൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കും

അതിനാൽ as അതിനാൽ ഈ യുടെ അബ്സോല്യൂട്ട് വാല്യൂ 1 ആയിരിക്കണം എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഈ യൂണിറ്ററി മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകൾ യൂണിറ്റ് മോഡുലസ് ആണ് ഓർത്തോഗണൽ മാട്രിക്സിനും നമുക്ക് ഇതേ ഫലങ്ങൾ ഉപയോഗിക്കാം കാരണം അവയ്ക്കും ഇതേ പ്രോപ്പർട്ടി ഉള്ളതിനാൽ A ട്രാൻസ്പോസ് ഗുണിക്കണം A എന്നത് I ന് തുല്യമാണ് അതിനാൽ ഓർത്തോഗണൽ മെട്രിക്സിനും ഇപ്പോൾ നമുക്ക് ഇവിടെ സമാനമായ എല്ലാ സമാന ഘട്ടങ്ങളും തെളിയിക്കാം നമുക്ക് വീണ്ടും തെളിയിക്കാം അവിടെയുള്ള ഐഗൻ വാല്യൂകളും യൂണിറ്റ് മോഡുലസ് ആണ് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ട ഐഗൻ വാല്യൂകളുടെ സ്ഥാനം നിങ്ങൾക്ക് ഒരു സ്ക്യൂ ഹെർമിഷ്യൻ മാട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻറെ ഐഗൻവാല്യൂസ് തികച്ചും ഇമാജിനറി ആണ് ഇവിടെ യൂണിറ്ററി മാട്രിക്സ്ന് ഈ മോഡുലസ് 1 ൽ കിടക്കുന്നു ഹെർമിറ്റിയൻ മാട്രിക്സ് അല്ലെങ്കിൽ സിമെട്രിക് മാട്രിക്സ് എന്നിവക്ക് ഐഗൻ വാല്യൂകൾ റിയൽ ആക്സിസ്ൽ ഇരിക്കുന്നു അതിനർത്ഥം അവ റിയൽ നമ്പറുകളാണ് എന്നതാണ് അതിനാൽ ഇവിടെ ഒരു സ്ക്യൂ ഹെർമിഷ്യൻ മാട്രിക്സിനും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിനും ഒരേ കാര്യം യൂണിറ്ററി മാട്രിക്സിനും ഓർത്തോഗണൽ മാട്രിക്സിനും നമ്മൾക്ക് ഒരേ ഫലം ഉണ്ട് അവ യൂണിറ്റ് മോഡുലസ് ഉള്ളവയാണ് ഹെർമിഷ്യൻ മാട്രിക്സിനും സിമെട്രിക് മാട്രിക്സിനും ഒരേ ഫലമാണ് അവ റിയൽ എൻട്രികൾ ആണ് കൺക്ലൂഷനിലേക്ക് വരുന്നു മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകളുടെയും ഐഗൻവെക്ടറുകളുടെയും നിരവധി സവിശേഷതകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വ്യത്യസ്തമായ തരത്തിലുള്ള മെട്രിക്സുകൾ പരിഗണിച്ചു അവിടെ ഐഗൻ വാല്യൂകൾ റിയൽ ആണോ ഇമാജിൻറി ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ ഇവിടെ ഈ എല്ലാ പ്രോപ്പർട്ടികളിലും ഈ ലളിതമായ ആശയം ഉപയോഗിക്കുക എന്നതായിരുന്നു പ്രോപ്പർട്ടികളെല്ലാം തെളിയിക്കാൻ നമ്മൾ ഈ സമവാക്യം മാത്രമാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ഈ ന്യൂമറിക്കൽ കംപ്യൂട്ടേഷനുകളൊന്നും ചെയ്യാതെ അവ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയും ഈ പ്രോപ്പർട്ടികളുടെ സഹായത്തോടെ നമുക്ക് നേരിട്ട് കണക്കുകൂട്ടാനും കഴിയും ഈ ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി